അതിനാൽ ഈ പ്രഭാഷണത്തിൽ ഗേറ്റ് ലെവലിലെ പവർ കുറയ്ക്കുന്നതിനുള്ള ചില സാങ്കേതിക വിദ്യകൾ ഞങ്ങൾ നോക്കും ഗേറ്റുകളുടെ തലത്തിൽ നടക്കുന്ന സിഗ്നൽ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രസകരമായ നിരവധി സാങ്കേതിക വിദ്യകളുണ്ട് അതിനാൽ ഇക്കാര്യത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചില അപ്പ്രോച്ച്കൽ ഞങ്ങൾ നോക്കും അതിനാൽപവർ കുറയ്ക്കുന്നതിനുള്ള വിവിധ സാങ്കേതിക വിദ്യകൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നോക്കാം ഗേറ്റുകളുടെ തലത്തിൽ പ്രകടിപ്പിക്കുന്ന ഡിസൈനുകൾ അർത്ഥമാക്കുന്നത് ഇവിടെ നമ്മൾ ട്രാൻസിസ്റ്ററുകളുടെ തലത്തിലേക്ക് നേരിട്ട് നോക്കുന്നില്ലായിരിക്കാം ചില അപ്പ്രോച്ച്കളിൽ തീർച്ചയായും നമ്മൾ നോക്കും എന്നാൽ ചില സമീപനങ്ങളിൽ നമ്മൾ ഒരു അബ്സ്ട്രാക്ഷൻ സൃഷ്ടിക്കുന്നതിനുള്ള മാർഗങ്ങളായിരിക്കും നോക്കുന്നത് ട്രാൻസിസ്റ്റർ ലെവൽവിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഞങ്ങൾ ഗേറ്റുകളിലേക്ക് മാത്രം നോക്കും അതിനാൽ ഗേറ്റുകളുടെ തലത്തിൽ നമുക് കുറച്ച് അനാലിസിസ് നടത്താം നിങ്ങൾക്ക് ചില റീ സ്ട്രക്ചറിങ് നടത്താനും അതുവഴി വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും കഴിയും ഇപ്പോൾ പവർ കുറയ്ക്കുന്നതിനുള്ള ഈ ഗേറ്റ് ലെവൽ ഡിസൈൻ ടെക്നിക്കുകളുടെ പ്രയോജനം എന്തെന്നാൽ ഈ രീതികൾ സിന്തസിസ് ടൂളുകളുടെ ഭാഗമായി വളരെ എളുപ്പത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അവിടെയുള്ള CAD ടൂളുകൾ പോലെ ഇവ അവിടെത്തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാം തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങൾ ആദ്യം മുതൽ തന്നെ പവർ അവേർ ഡിസൈൻ ഫിലോസഫി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അവസാനം നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വരെ കാത്തിരിക്കരുത് നിങ്ങൾ പവറിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും അത് ചെയ്യരുത് എന്നതാണ് പിന്തുടരുന്ന ഡിസൈൻ തത്വം ബിഹേവിയർ വിവരണത്തിൽ നിന്ന് തന്നെ ഉയർന്ന തലത്തിൽ നിന്ന് പോലും നിങ്ങളുടെ ഫൈനൽ സർക്യൂട്ടുകൾ കുറഞ്ഞ വൈദ്യുതി ഉപഭോഗം ചെയ്യുന്നതിനായി ഊർജ്ജ ബോധമുള്ളവരായിരിക്കണം അനാവശ്യമായി വൈദ്യുതി ഉപഭോഗം നിർത്തണം മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് ഇത് പിന്നീട് പ്രശ്നം ലളിതമാക്കും അതിനാൽ ഒരു CMOS നെറ്റ്വർക്കിലെ വൈദ്യുതി ഉപഭോഗം ഓർക്കുന്നു അതുകൊണ്ട് എനിക്ക് ഈ പിഎംഒഎസ് സിഎംഒഎസ് ഈ ഗ്രൌണ്ട് ഈ വിഡിഡി PMOS CMOS this ground this VDDഎന്നിവയുണ്ട് നേരത്തെ ഞാൻ ലോഡ് കപ്പാസിറ്റൻസ് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ എന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നു എന്നാൽ പ്രായോഗികമായി ഈ കപ്പാസിറ്റൻസ് നിരവധി കാര്യങ്ങളിൽ ചിലതാണ് സിഗ്മ സി ഇൻപുട്ട് ലോഡ് കപ്പാസിറ്റൻസ് ആണ് ഇത് മറ്റ് ട്രാൻസിസ്റ്ററുകളുടെ ഗേറ്റിന്റെ ഡ്രൈവിംഗ് മൂലമാണ് ഇന്റർകണക്റ്റുകളുടെ പാരാസൈറ്റിക് കപ്പാസിറ്റൻസ് ഈ നീണ്ട ഇന്റർകണക്ഷൻ ലൈൻ കൂടാതെ ലോക്കൽ ട്രാൻസിസ്റ്ററുകളുടെ ഡ്രെയിൻ കപ്പാസിറ്റൻസ് എന്നിവയും ഉണ്ടാകാം അതിനാൽ എഫക്റ്റീവ് ലോഡ് കപ്പാസിറ്റൻസ് ഇവയുടെയെല്ലാം ആകെ തുക ആയിരിക്കും അപ്പോൾ ഔട്ട്പുട്ട് ശരിയായ ഡ്രൈവിംഗ് ആയിരിക്കും ഇതൊരു ലളിതമായ സമവാക്യമാണ് 0 മുതൽ ക്യാപിറ്റൽ T വരുന്ന ഓരോ സൈക്കിളിലും ഔട്ട്പുട്ട് 0 ൽ നിന്ന്Vout ലേക്കും തുടർന്ന് Vout ൽ നിന്ന് 0 ലേക്കും സ്വിച്ച് ചെയ്യുന്നു അതായത് ഒരാൾ ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് അതിനാൽ ഞാൻ വൈദ്യുതി ഉപഭോഗം ശരാശരി വൈദ്യുതി ഉപഭോഗം 1 ബൈ T രണ്ട് ഭാഗങ്ങളായി കാണിക്കുന്നു 0 മുതൽ Tബൈ 2 വരെയുള്ള പകുതി സൈക്കിളുകൾക്ക് ഈ നോഡിന്റെ വോൾട്ടേജ് Vout ആണെന്നാണ് ഞാൻ പറയുന്നത് അതിനാൽ ഇത് ഡിസ്ചാർജ് ചെയ്യുന്നു Cload dVout dt മറ്റേ ഭാഗത്ത് നിങ്ങൾ ചാർജ് ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ വോൾട്ടേജ് വ്യത്യാസം VDD മൈനസ് Vout ആണ് അതിനാൽ നിങ്ങൾ ആകെ തുക എടുക്കുകയാണെങ്കിൽ ചാർജ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതുമായ രണ്ട് സൈക്കിളുകളിലെയും ശരാശരി വൈദ്യുതി ഉപഭോഗം നിങ്ങൾക്ക് ലഭിക്കും ഈ ഡയഗ്രാമുമായി ബന്ധപ്പെട്ട് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ആവറേജ് പവർ ഡിസിപ്പേഷൻ എക്സ്പ്രഷൻ നിങ്ങൾ കാണുന്നു എന്നതാണ് അതിനാൽ ഞങ്ങൾ നേരത്തെ ഒരു എക്സ്പ്രഷൻ കാണിച്ചു അത് ആൽഫ സി വിഡിഡി സ്ക്വയർ ഇൻടു എഫ് പോലെ ക്ലോക്കിന്റെ ഫ്രീക്വൻസി ആണ് എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ സമവാക്യം അൽപ്പം പരിഷ്കരിക്കുകയാണ്VDD into f തീർച്ചയായും ക്ലോക്ക് ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നു എന്നാൽ ഇവിടെ കപ്പാസിറ്ററിന്റെ ചാർജിംഗും ഡിസ്ചാർജും നോക്കുമ്പോഴെല്ലാം ഇത് ഔട്ട്പുട്ട് നോഡ് മാത്രമല്ല ഈ ഗേറ്റിന്റെ മറ്റ് ഇന്റെര്ണല് നോഡുകൾ എല്ലാം കാണുക ഇത് പോലെ ഇവിടെ മറ്റൊരു ജംഗ്ഷൻ ഉണ്ട് അതിനാൽ ഇവിടെയും ഈ ഡ്രെയിനിൽ നിന്ന് ഗ്രൌണ്ടിലേക് ഒരു ഇന്റെര്ണല് കപ്പാസിറ്റൻസ് ഉണ്ടാകും ഇതും വളരെ നിസ്സാരമല്ല ഇതും പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ ഇൻപുട്ടുകൾ മാറുമ്പോഴെല്ലാം ചാർജ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും ഈ ലോഡ് കപ്പാസിറ്റൻസ് മാത്രമല്ല ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്ന സി ഇന്റേണൽ കൂടിയാണ് ഈ ഉദാഹരണം പോലെ ഇതൊരു 2 ഇൻപുട്ട് NOR ഗേറ്റ് ആണ് നമുക്ക് VA VB എന്ന് പറയാം 2 ഇൻപുട്ടുകൾ ഇതുപോലെ മാറുന്നു VA 0 ൽ നിന്ന് ഹൈയിലേക് പോകുന്നു VB ഹൈയിൽ നിന്ന് ലോയിലേക്ക് പോകുന്നു വി ഇന്റർനൽ അതിനാൽ VA കണ്ടക്ട് ചെയ്യുമ്പോഴെല്ലാം വിഡിഡി ഇവിടെ വരും അതിനാൽ VA കണ്ടക്റ്റിംഗ് എന്നാൽ അതായത്ഇത് 0 ആണ് അതിനാൽ VDD ഇവിടെ കണക്റ്റുചെയ്യും അത് 0 ആണ് ഇത് ഇവിടെ കണക്റ്റുചെയ്യുന്നു മറ്റ് സമയം അത് 0 ആയിരിക്കും അതിനാൽ വിഇന്റർണലും ഒരു ചാർജിംഗ് ഡിസ്ചാർജിംഗ് ഘട്ടത്തിലൂടെ കടന്നുപോകും അതിനാൽ Cinternal ചാർജിംഗ് ഡിസ്ചാർജിംഗിലൂടെയും കടന്നുപോകും ഇവിടെ നിങ്ങൾ ഔട്ട്പുട്ട് നോഡ് മാത്രമല്ല എല്ലാ നോഡുകൾക്കും ഈ ചാർജിംഗ് ഡിസ്ചാർജിംഗ് പരിഗണിക്കേണ്ടതുണ്ട് ഇത് വ്യത്യസ്ത നോഡുകളുടെ പ്രവർത്തനമാണ് ഈ നോഡിന്റെ പ്രവർത്തനം ഈ നോഡിന്റെ പ്രവർത്തനം അനുബന്ധ കപ്പാസിറ്റൻസും അനുബന്ധ വോൾട്ടേജും ഇതാണ് Vout ഇതാണ് വിഇന്റർണൽ അതിനാൽ ഇത് പവറിന്റെ കൂടുതൽ കൃത്യമായ കണക്കുകൂട്ടൽ ആയിരിക്കും ഇനി നമുക്ക് ഗേറ്റ് ലെവൽ ഡിസൈൻ പരിഗണനകൾ നോക്കാം അതിനാൽ ഗേറ്റുകളുടെ തലത്തിൽ ഞങ്ങൾ പ്രധാനമായും ഡൈനാമിക് പവർ കൺസംപ്ഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാൽ ഗേറ്റ് ഔട്ട്പുട്ട് 0 മുതൽ 1 1 മുതൽ 0 വരെയുള്ള സ്റ്റേറ്റിലേക്ക് മാറുമ്പോഴെല്ലാം ഡൈനാമിക് പവർ കൺസംപ്ഷനും ഷോർട്ട് സർക്യൂട്ടുകളുടെ പവറിനും പ്രധാന കാരണം ഞങ്ങൾ കണ്ടു സിഗ്നൽ ആക്ടിവിറ്റി അത് ഒരു സർക്യൂട്ടിൽ സാധ്യമാണ് അതിനാൽ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട് ഞങ്ങൾ ഇത് കുറച്ച് കഴിഞ്ഞ് വിശദീകരിക്കും ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ C ഒരു നോഡിന്റെ കപ്പാസിറ്റൻസിനെ സൂചിപ്പിക്കുന്നു Pi പ്രോബബിലിറ്റിയെ സൂചിപ്പിക്കുന്നു ഈ P എന്നത് പവറി നെ സൂചിപ്പിക്കുന്നു എന്നാൽ ഒരു നോഡിന്റെ ലോജിക് വാല്യൂ ലോജിക് 1 ൽ ആയിരിക്കാനുള്ള സാധ്യതയാണിത് പൈ 1 മൈനസ് പൈ എന്ന ജസ്റ്റിഫിക്കേഷനെക്കുറിച്ച് ഞാൻ സംസാരിക്കട്ടെ പൈ എന്നത് നോഡ് 1 ൽ ആയിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് 1 മൈനസ് പൈ എന്നത് നോഡ് 0 ലായിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് ഇപ്പോൾ ഒരു നോഡിൽ പവർ കൺസംപ്ഷൻ ഉണ്ടാകുമ്പോൾ ഒരു ട്രാൻസിഷൻ ഉണ്ടാകും യഥാർത്ഥത്തിൽ ഒരു ട്രാൻസിഷൻ ഉണ്ടാകുമ്പോൾ നോഡിന്റെ വാല്യൂ ചിലപ്പോൾ ഹൈയും ചിലപ്പോൾ ലോയും ആകും എന്നാൽ മാത്രമേ ഒരു ട്രാൻസിഷൻ ഉണ്ടാകൂ അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും ഹൈന്റെ പ്രോബബിലിറ്റി പൈയും ലോന്റെ പ്രോബബിലിറ്റി 1 മൈനസ് Pi യുമാണ് അതിനാൽ ഞാൻ ഈ രണ്ടിന്റെയും പ്രോഡക്റ്റായ Pi ഇൻടു 1 മൈനസ് പൈPi into എടുക്കുന്നു ഞാൻ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനർത്ഥം നോഡിന്റെ ലോജിക് വാല്യൂ 1 ലും 0 ലും ആയിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണിതെന്നാണ് ഞാൻ പറയുന്നത് അതായത് ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ തിരിച്ചും 0 1 അതുകൊണ്ടാണ് ഞാൻ പൈയുടെയും 1 മൈനസ് പൈയുടെയും പ്രോഡക്റ്റ് എടുക്കുന്നത് കപ്പാസിറ്റൻസ് വാല്യൂ കൊണ്ട് ഗുണിച്ചാൽ ഒരു ട്രാൻസിഷൻ ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി അതാണ് അതിനാൽ നിങ്ങൾ സം ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ മിനിമം ആക്കാൻ ആഗ്രഹിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായിരിക്കും കാരണം ഞാൻ ഇത് മിനിമം ആക്കിയാൽ എന്റെ ഡൈനാമിക് പവറും മിനിമം ആയിരിക്കും അതിനാൽ ഉപയോഗിക്കുന്ന നിരവധി സമീപനങ്ങളുണ്ട് ഈ സമീപനങ്ങളിൽ ചിലത് ഞങ്ങൾ ഓരോന്നായി നോക്കും ടെക്നോളജി മാപ്പിംഗ് ഫേസ് അസൈൻമെന്റ് പിൻ സ്വാപ്പിംഗ് ഗ്ലിച്ചിംഗ് പവർ ഹാൻഡ്ലിംഗ് തുടങ്ങിയവ ഈ രീതികൾ നമ്മൾ കാണും അതിനാൽ നമുക്ക് ടെക്നോളജി മാപ്പിംഗ്ൽ അപ്പ്രോചിൽ നിന്ന് ആരംഭിക്കാം എന്താണ് ടെക്നോളജി മാപ്പിംഗ് എന്ന് നോക്കൂ ലോജിക് സിന്തസിസ് സമയത്ത് എന്താണ് ലോജിക് സിന്തസിസ് ഒരു സ്പെസിഫിക്കേഷൻ നൽകിയാൽ ഒന്നുകിൽ ഒരു ഗേറ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു സെൽ ലെവൽ സർക്യൂട്ട് സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ടെക്നോളജി മാപ്പിംഗ് എന്നതിനർത്ഥം ചില സാധാരണ സെല്ലുകൾ ഇതിനകം ഉള്ള ഒരു ലൈബ്രറി എനിക്കുണ്ട് രണ്ട് ഇൻപുട്ട് ഗേറ്റുകൾ മൾട്ടിപ്ലെക്സറുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആകാം അതിനാൽ ഞാൻ സിന്തസൈസ് ചെയ്യുമ്പോൾ എന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകൾ ആ ലൈബ്രറിയിൽ നിന്ന് മാത്രമേ എടുക്കാവൂ ഇതിനെ ടെക്നോളജി മാപ്പിംഗ് എന്ന് വിളിക്കുന്നു ടെക്നോളജി ലൈബ്രറിയിൽ നിന്ന് സെല്ലുകൾ എടുക്കുന്ന സെല്ലുകളുടെ ഒരു നെറ്റ്ലിസ്റ്റ് ഞാൻ സൃഷ്ടിക്കുന്നു ഈ പ്രക്രിയയെ ടെക്നോളജി മാപ്പിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇവിടെ എന്റെ ടെക്നോളജി ലൈബ്രറിയിൽ 2 ഇൻപുട്ട് ഗേറ്റുകൾ അടങ്ങിയിരിക്കുന്നു മറ്റ് ചില ഗേറ്റുകളും അവിടെയുണ്ട് അതിനാൽ മൊത്തം സ്വിച്ചിംഗ് പ്രവർത്തനത്തെ ഞങ്ങൾ ചെറുതാക്കുന്നതോ ചെറുതാക്കാൻ ശ്രമിക്കുന്നതോ ആയ ഒരു ഒബ്ജക്റ്റീവ് ഫങ്ക്ഷൻ നിർവചിക്കാൻ ഞങ്ങൾ ഇവിടെ ശ്രമിക്കുന്നു കാരണം പവർ കൺസംപ്ഷൻ സ്വിച്ചിംഗ് ആക്ടിവിറ്റിയെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഒരു ഉദാഹരണം ഉപയോഗിച്ച് ഞങ്ങൾ ഈ പ്രക്രിയയെ ചിത്രീകരിക്കുന്നു അതിനാൽ ഞങ്ങൾ ഇൻപുട്ട് എ ബി സിയും ഡിയും ഉള്ള 4 ഇൻപുട്ട് സർക്യൂട്ട് എടുക്കുന്നു ആശയം ഇപ്രകാരമാണ് എനിക്ക് ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് പറയാം 4 ഇൻപുട്ടുകൾ A B C D ഉണ്ട് ഇപ്പോൾ ഈ അപ്പ്രോചിൽ തീർച്ചയായും ഒരു ഔട്ട്പുട്ട് ഉണ്ട് ഈ അപ്പ്രോചിൽ നമ്മൾ സിഗ്നൽ പ്രോബബിലിറ്റി നോക്കുകയാണ് അതിനാൽ എ ബി എന്നിവയുടെ ഇൻപുട്ടുകളുടെ സിഗ്നൽ പ്രോബബിലിറ്റി 0 2 0 2 സി ഡി എന്നിവ 0 5 ഉം 0 5 ഉം ആണെന്ന് ഞാൻ അനുമാനിക്കുന്നു ഈ വാല്യൂ എനിക്ക് എങ്ങനെ അറിയാം എന്ന് നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ A ഡ്രൈവ് ചെയ്യുന്ന ഔട്ട്പുട്ടിൽ നിന്ന് ചില സർക്യൂട്ടുകൾ ഉണ്ടാകാം നിങ്ങൾ B ഡ്രൈവ് ചെയ്യുന്നിടത്ത് നിന്ന് മറ്റ് ചില സർക്യൂട്ട് ഉണ്ടാകാം ഈ സർക്യൂട്ടുകൾക്ക് എത്ര തവണ ഔട്ട്പുട്ട് 1 ആകാമെന്നും ഔട്ട്പുട്ട് 0 ആയിരിക്കാമെന്നും നിർണ്ണയിക്കാനാകും ഒരു ലളിതമായ പ്രോബബിലിറ്റി അധിഷ്ഠിത കാല്കുലേഷൻ ഉണ്ട് ഈ പ്രോബബിലിറ്റി കാല്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഒരു ബ്ലോക്കുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അത് നോക്കും അതിനാൽ 0 2 എന്നാൽ A വരിയിലെ സിഗ്നൽ വാല്യൂ 20 ശതമാനം പ്രോബബിലിറ്റിയിൽ 1 ആയിരിക്കും 80 ശതമാനം പ്രോബബിലിറ്റി 0 ആയിരിക്കും അതുപോലെ സിയും ഡിയും 50 ശതമാനം തുല്യമായിരിക്കും അതിനാൽ ആക്ടിവിറ്റി ഫാക്ടറിന്റെ എസ്റ്റിമേഷൻ പ്രധാനമാണ് ഇവിടെ നമ്മൾ പറയുന്നത് പൈ സിഗ്നൽ പ്രോബബിലിറ്റിയെയും നോഡ് ഐയെയും സൂചിപ്പിക്കുമെന്ന് ഞങ്ങൾ കുറച്ച് മുമ്പ് വിശദീകരിച്ചതുപോലെ നോഡ് i യുടെ സിഗ്നൽ പ്രോബബിലിറ്റി സൂചിപ്പിക്കാൻ ഞങ്ങൾ ഈ നൊട്ടേഷൻ Pi ഉപയോഗിക്കുന്നു അതായത് നിർദ്ദിഷ്ട ലൈൻ ലോജിക് 1 ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ് അതിനാൽ നോഡ് ലോജിക് 0 ൽ ആയിരിക്കാനുള്ള പ്രോബബിലിറ്റി1 മൈനസ് പൈ ആയിരിക്കും കാരണം മൊത്തം പ്രോബബിലിറ്റി 1 ആയിരിക്കണം അതിനാൽ ആക്ടിവിറ്റി ഫാക്ടർ ഞാൻ കുറച്ച് മുമ്പ് വിശദീകരിച്ചു ആൽഫ i നിർവചിച്ചത് പൈയുടെയും യും 1 മൈനസ് പൈയുടെയും പ്രോഡക്റ്റ് ആയാണ് കാരണം നോഡ് 1 ലും 0 ലും ആയിരിക്കുമ്പോഴെല്ലാം ഒരു ആക്ടിവിറ്റി ഉണ്ടാകും അപ്പോൾ മാത്രമേ ഒരു ട്രാൻസിഷൻ ഉണ്ടാകൂ അതിനാൽ വരുന്ന ഡാറ്റ തികച്ചും ക്രമരഹിതമായിരിക്കുമ്പോൾ അതായത് അവ തുല്യമായി 0 അല്ലെങ്കിൽ 1 ആയിരിക്കുമ്പോൾ പ്രോബബിലിറ്റി തുല്യമായിരിക്കും അതിനാൽ 0 5 പ്രോബബിലിറ്റി അത് 1 ആണ് കൂടാതെ 0 5 പ്രോബബിലിറ്റി 0 ആകുമ്പോൾ ഡാറ്റ തികച്ചും ക്രമരഹിതമാണ് അതിനാൽ പൂർണ്ണമായും റാൻഡം ഡാറ്റയ്ക്ക് Pi 0 5 ആയിരിക്കും അതിനാൽ ആൽഫ i 0 25 ആയിരിക്കും എന്നാൽ യഥാർത്ഥ സർക്യൂട്ടുകളിൽ ഡാറ്റ പൂർണ്ണമായും ക്രമരഹിതമായിരിക്കില്ല അതിനാൽ സാധാരണയായി ആക്ടിവിറ്റി ഫാക്ടർവളരെ കുറവായിരിക്കും അതിനാൽ ഞങ്ങൾ ഒരു ലളിതമായ ഉദാഹരണം തയ്യാറാക്കും എന്നാൽ ഉദാഹരണം പ്രവർത്തിക്കുന്നതിന് മുമ്പ് അടിസ്ഥാന ഗേറ്റുകളുടെ സിഗ്നൽ പ്രോബബിലിറ്റി എങ്ങനെ കണക്കാക്കാമെന്ന് ഞങ്ങൾ നോക്കുന്നു ഈ സമവാക്യം അൽപ്പം സങ്കീർണ്ണമായി തോന്നാം പക്ഷേ അവ ലഭിച്ച രീതി വളരെ ലളിതമാണ് 2 ഇന്പുട് ആൻഡ് ഗേറ്റ് പരിഗണിക്കുക ഇൻപുട്ട് 1 ൽ ആയിരിക്കാനുള്ള പ്രോബബിലിറ്റി ഇതാണ് അപ്പോൾ Pf പ്രോബബിലിറ്റി എന്തായിരിക്കും പ്രോബബിലിറ്റി ഔട്ട്പുട്ട് 1 ആയിരിക്കും രണ്ട് ഇൻപുട്ടുകളും 1 ആണെങ്കിൽ ഒരു AND ഗേറ്റ് ഔട്ട്പുട്ട് 1 ആയിരിക്കും അതിനാൽ ഇത് PA PB എന്നിവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും അതുപോലെ നമ്മൾ ഒരു OR ഗേറ്റിലേക്ക് നോക്കിയാൽ അതേ രീതിയിൽ 2 ഇൻപുട്ടുകൾ സിഗ്നൽ പ്രോബബിലിറ്റി PA PB എന്നിവയാണ് അപ്പോൾ ഇവിടെ Pf എന്തായിരിക്കും ഒരു OR ഗേറ്റ് നോക്കുക ഔട്ട്പുട്ട് എപ്പോൾ 1 ആയിരിക്കും ഇൻപുട്ടുകളിൽ ഒന്ന് എങ്കിലും 1 ആവണം എന്നാണ് നിയമം പക്ഷേ ആ രീതിയിൽ പ്രോബബിലിറ്റി എഴുതുന്നത് ബുദ്ധിമുട്ടാണ് ഔട്ട്പുട്ട് 0 ആകുമ്പോൾ പ്രോബബിലിറ്റി എഴുതുന്നത് എളുപ്പമാണ് രണ്ട് ഇൻപുട്ടുകളും 0 ആണെങ്കിൽ പരോക്ഷമായി ഔട്ട്പുട്ട് 0 ആകുമെന്ന് നോക്കാം അതിനാൽ രണ്ട് ഇൻപുട്ടും 0 എന്നാൽ 1 മൈനസ് പിഎ 1 മൈനസ് പിബി എന്നാണ് അതിനാൽ 1 മൈനസ് പിഎയെ 1 മൈനസ് പിബി കൊണ്ട് ഗുണിച്ചാൽ ഇത് എഫ് 0 ആകാനുള്ള പ്രോബബിലിറ്റി ആണ് എന്നാൽ നമുക് വേണ്ടത് പ്രോബബിലിറ്റി എഫ് 1 ആണ് ഇത് എഫ് പ്രോബബിലിറ്റി 0 ആണെങ്കിൽ ഇതിന്റെ 1 മൈനസ് പ്രോബബിലിറ്റി f 1 ആയിരിക്കും ഈ മുഴുവൻ കാര്യവും പ്രോബബിലിറ്റി എഫ് 1ആണ് അതിനാൽ ഇത് ഇതുപോലെ പിന്തുടരുന്നു അതിനാൽ നിങ്ങൾ ഇപ്പോൾ ടേബിളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മറ്റുള്ളവയെ ജസ്റ്റിഫയ് ചെയ്യാൻ കഴിയും ഒരു NAND ഗേറ്റിന് അത് AND ഗേറ്റിന്റെ വിപരീതമായിരിക്കും രണ്ടും 1 1 ആണെങ്കിൽ AND ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും എന്നാൽ NAND ഗേറ്റ് 0 ആയിരിക്കും അതിനാൽ ഇത് ഇതിന്റെ 1 മൈനസ് ആയിരിക്കും NOR ഗേറ്റ് ഈ 1 മൈനസ് അവിടെ ഉണ്ടാകില്ല XOR ഗേറ്റ് PA എന്നത് 1 ആണ് എന്നാൽ PB എന്നത് 0 ആണ് അല്ലെങ്കിൽ PA എന്നത് 0 ആണ് PB എന്നത് 1 ആണ് 4 ഇൻപുട്ട് AND ഗേറ്റിനും എല്ലാം 4 ഉം ഒന്നാണ് 4 ഇൻപുട്ട് OR ഗേറ്റ് ഈ 4 ന്റെയും വിപുലീകരണം 0 ആണ് അതിന്റെ 1 മൈനസ് ആണ് അതിനാൽ ഞങ്ങൾ ഇതുപോലുള്ള ഒരു ഉദാഹരണം തയ്യാറാക്കും ഘട്ടം ഘട്ടമായുള്ള മൂല്യനിർണ്ണയം ഞാൻ നിങ്ങളെ കാണിക്കും ഞങ്ങൾ അടിസ്ഥാനപരമായി പറയുന്നത് എനിക്ക് 4 ഇൻപുട്ട് AND ഉള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്നാൽ എന്റെ ടെക്നോളജി ലൈബ്രറിയിൽ 2 ഇൻപുട്ട് AND മാത്രമേ ഉള്ളൂ അതിനാൽ ഒന്നുകിൽ എനിക്ക് എന്റെ ഡിസൈൻ ഇതുപോലെ പാർട്ടീഷൻ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ പാർട്ടീഷൻ ചെയ്യാം അതിനാൽ അവയിൽ ഏതാണ് മികച്ചതെന്ന് എനിക്കറിയില്ല വ്യക്തമായും ഡിലെയുടെ വീക്ഷണകോണിൽ ഇത് മികച്ചതായിരിക്കും കാരണം 2 ലെവലുകൾ ഗേറ്റ് ഡിലെ ഉണ്ട് എന്നാൽ ഇവിടെ ഗേറ്റ് ഡിലെയുടെ 3 തലങ്ങളുണ്ട് ഡിലെ കൂടുതലായിരിക്കും എന്നാൽ പവർ കൺസംപ്ഷന്റെ വീക്ഷണകോണിൽ ഏതാണ് നല്ലത് നമുക്ക് നോക്കാം അതിനാൽ സിഗ്നൽ പ്രോബബിലിറ്റി 0 5 0 5 എന്നിങ്ങനെയാണെന്ന് ഞാൻ അനുമാനിച്ചു നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ ബദൽ നോക്കാം ഡിലെ 3 യൂണിറ്റുകളാണ് മാപ്പിംഗിന്റെ ആദ്യ മാർഗം നമ്മൾ പവർ കണക്കാക്കുന്നു നമ്മൾ എന്താണ് അനുമാനിച്ചത് ഇൻപുട്ട് സിഗ്നൽ പ്രോബബിലിറ്റി ഈ 0 5 0 5 എന്നിവയാണെന്ന് ഞങ്ങൾ അനുമാനിച്ചു അതിനാൽ ആ പട്ടികകൾ ഉപയോഗിച്ച് ഞങ്ങൾ ആദ്യം മറ്റ് വരികളുടെ പ്രോബബിലിറ്റി വാല്യൂ കണക്കാക്കുന്നു അതിനാൽ PE എന്തായിരിക്കും അത് PA PB എന്നിവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും അതിനാൽ P ഒരു AND ആണെന്ന് നോക്കാം രണ്ട് ഇൻപുട്ട് AND ഗേറ്റ് PA PB എന്നിവയുടെ പ്രോഡക്റ്റ് 0 04 ഗുണിച്ചാൽ മതി PF എന്നത് PE PC എന്നിവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും 0 04 ഇൻടു 0 5 അത് 0 02 ആണ് എന്താണ് PG PF നെ PD കൊണ്ട് ഗുണിച്ചാൽ 0 02 നെ 0 5 കൊണ്ട് ഗുണിച്ചാൽ 0 അതിനാൽ ഞങ്ങൾ സിഗ്നൽ പ്രോബബിലിറ്റി കണക്കാക്കി ഇപ്പോൾ നമുക്ക് സിഗ്നൽ ആക്ടിവിറ്റി വാല്യൂ ആയ ആൽഫ ഐ വാല്യൂ കണക്കാക്കാം ഇപ്പോൾ ആൽഫയെ ഒരു നിർവ്വചനം പ്രകാരം P യെ 1 മൈനസ് P കൊണ്ട് ഗുണിച്ചാൽ എന്ന് നിർവചിച്ചിരിക്കുന്നു അതിനാൽ ഈ വരിയിൽ E alpha PE ഇൻടു 1 മൈനസ് PE ആയി മാറും PE ഇതിനകം കണക്കാക്കിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ഇത്പകരം വയ്ക്കുകയാണെങ്കിൽ ആൽഫ എഫ് സമാനമായി ഇതായിരിക്കും ആൽഫ ജി ഇതായിരിക്കും ഈ സർക്യൂട്ടിനായി സിഗ്നൽ ആക്ടിവിറ്റീസിന്റെ ആകെത്തുക അതെല്ലാം ആഡ് ചെയ്താൽ മതി അതിനാൽ മൊത്തം സ്വിച്ചിംഗ് ആക്ടിവിറ്റി 0 0679 ആകും എന്നാൽ ഇപ്പോൾ നമ്മൾ ഗേറ്റ് ഈ രീതിയിൽ മാപ്പ് ചെയ്യുന്നു എന്ന് കരുതുക അവിടെ ഗേറ്റുകൾ 2 ലെവലിൽ ആണ് ഡിലെ കുറവാണ് ഗേറ്റ് വേഗതയേറിയതായിരിക്കും എന്നാൽ പവറുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം അതേ പ്രോബബിലിറ്റി വാല്യൂസ് തന്നെ കിട്ടും ഇപ്പോൾ PE വാല്യൂസ് ഇതുപോലെയായിരിക്കും PE സമാനമായി PA PB 0 4 PF എന്നത് PC ഇൻ ടു PD 0 25 PG എന്നത് PE ഇൻ ടുPF 0 01 ആയിരിക്കും അതിനാൽ നിങ്ങൾ ഇപ്പോൾ ആൽഫ ഇ ആൽഫ എഫ് ആൽഫ ജി എന്നിവ കണക്കാക്കുകയാണെങ്കിൽ വാല്യൂസ് ഇതുപോലെ വരുന്നതായി നിങ്ങൾ കാണും എന്നാൽ ആൽഫ എഫിന്റെ വാല്യൂ വളരെ ഉയർന്നതാണ് കൂടാതെ മൊത്തം സിഗ്നൽ ആക്ടിവിറ്റിയും വളരെ വലുതാണ് നേരത്തെയുള്ള സാഹചര്യത്തിൽ ഇത് ഏകദേശം 0 06 ആയിരുന്നു ഇവിടെ അത് 0 അതിനാൽ പവർ ഡിസ്പേഷന്റെ വീക്ഷണകോണിൽ നിന്ന് ഇത് വളരെ മോശം ടെക്നോളജി മാപ്പിംഗ് ആണ് ഇതുവരെയുള്ള ടെക്നോളജി മാപ്പിംഗ് സമയത്ത് നമ്മൾ പവർ നോക്കിയിരുന്നില്ല ഡിലെ സർക്യൂട്ട് എത്ര വേഗത്തിൽ പ്രവർത്തിക്കുമെന്ന് നോക്കി പക്ഷേ ഇപ്പോൾ ഒരു അധിക പാരാമീറ്റർ ഉണ്ട് ടെക്നോളജി മാപ്പിംഗ് സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു ഒബ്ജക്റ്റീവ് ഫങ്ക്ഷൻ ഉണ്ട് ഇത് സിഗ്നൽ ആക്ടിവിറ്റീസിന്റെ ആകെത്തുക കണക്കാക്കും ആക്ടിവിറ്റി ഫാക്ടർ ആൽഫ ഐ കൂടാതെ ഒന്നിലധികം ബദലുകൾക്കിടയിൽ പവറുമായി ബന്ധപ്പെട്ട് ഏതാണ് മികച്ചതെന്ന് നിങ്ങളോട് പറ യും ഡിലെമായി ബന്ധപ്പെട്ട് ഏതാണ് മികച്ചതെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു ട്രേഡ് ഓഫ് ആണിത് ഫേസ് അസൈൻമെന്റ് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ടെക്നിക്യുണ്ട്ആക്ടിവിറ്റി കുറയ്ക്കുന്നതിന് ഇവിടെ നിങ്ങൾക്ക് ഫങ്ഷണൽ ബ്ലോക്കുകളിലുടനീളം ഒരു ഗേറ്റ് നീക്കാൻ കഴിയും ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം നൽകുന്നു ഇവിടെ A ബാർ B ഫംഗ്ഷൻ കണക്കാക്കുന്ന വെറും 2 ഗേറ്റുകൾ ഉള്ള ഒരു ഗേറ്റ് ലെവൽ സർക്യൂട്ട് നമുക്ക് ഉണ്ട് ഇൻപുട്ട് A ൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു ഈ ലൈൻ A ഒരു ഹൈ ആക്ടിവിറ്റി നോഡാണെന്ന് നമുക്ക് അനുമാനിക്കാം അവിടെ ധാരാളം സിഗ്നൽ ആക്ടിവിറ്റിയുണ്ട് PA യുടെ വാല്യൂ കൂടുതലാണ് അതിനാൽ PA കൂടുതലായതിനാൽ ഈ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ടിനും P യുടെ ഉയർന്ന വാല്യൂ ഉണ്ടായിരിക്കും കാരണം ഇൻപുട്ടിലെ ഓരോ ട്രാന്സിഷനും ഔട്ട്പുട്ട് ഭാഗത്ത് ഒരു ട്രാന്സിഷൻ ഉണ്ടാകും എന്നാൽ ഞാൻ ഈ സർക്യൂട്ടിന്റെ ഒരു ടെക്നോളജി മാപ്പിംഗ് ഇതുപോലെ ഉണ്ടാക്കുന്നു എന്ന് കരുതുക അതുവഴി ഞാൻ ഈ ആൻഡ് ഗേറ്റിനെ ഒരു NOR ഗേറ്റാക്കി മാറ്റുകയും എന്റെ ഇൻപുട്ട് B യിൽ നിന്ന് B ബാറിലേക്ക് മാറ്റുകയും ചെയ്യുന്നു അങ്ങനെ എന്റെ ഔട്ട്പുട്ട് ഫംഗ്ഷൻ അതേപടി നിലനിൽക്കുമോ എന്നാൽ ഞാൻ നേടിയത് നേരത്തെ ഹൈ ആക്ടിവിറ്റിയുള്ള 2 നോഡുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഹൈ ആക്ടിവിറ്റിയുള്ള ഒരൊറ്റ നോഡുണ്ട് അതിനാൽ സ്വാഭാവികമായും എന്റെ പവർ കൺസംപ്ഷൻ കുറയും അതിനാൽ ചില ഉയർന്ന ആക്ടിവിറ്റീസ് വിഭാവനം ചെയ്യുന്ന സർക്യൂട്ടിന്റെ ഭാഗങ്ങളിൽ ഗേറ്റുകൾ മൂവ് ചെയ്തു ആക്ടിവിറ്റി ഫാക്ടറിന്റെ ആകെത്തുക ആൽഫ ഐ വാല്യൂസ് കുറയ്ക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഗേറ്റുകൾ മൂവ് ചെയ്തു ഗേറ്റുകൾ റീസ്ട്രക്ട് ചെയ്തു ബൂളിയൻ അൽജിബ്ര റൂൾസ് ഉപയോഗിച്ച് ഫങ്ക്ഷണൽ വേവ് മാറ്റി ഇവിടെ ഞങ്ങൾ ഒരു AND ഗേറ്റിനെ NOR ഗേറ്റാക്കി മാറ്റിയിട്ടുണ്ട് നമുക്ക് മറ്റൊരു ഉദാഹരണമെടുക്കാം ഒരു മൾട്ടിപ്ലക്സർ എനിക്ക് 2 ടു 1 മൾട്ടിപ്ലക്സർ ഉണ്ടെന്ന് കരുതുക അവിടെ A B എന്നീ 2 ഇൻപുട്ടുകൾ ഉണ്ട് A ഇൻവെർട്ടഡ് ആണ് ആകസ്മികമായി A ഒരു ഹൈ ആക്ടിവിറ്റി നോഡാണെന്ന് കരുതുക അതിനാൽ ഈ NOT ഗേറ്റിന്റെ ഔട്ട്പുട്ടും ഹൈ ആക്ടിവിറ്റി ആയിരിക്കും അതിനാൽ ഞാൻ ചെയ്യുന്നത് ഞാൻ സർക്യൂട്ടുകൾ പരിഷ്ക്കരിക്കുന്നു അതിനാൽ ഞാൻ ഇവിടെ നിന്ന് ഇൻവെർട്ടർ പുറത്തെടുക്കുന്നു ഞാൻ ഇൻവെർട്ടർ ബി ലൈനിൽ ഇട്ടു കൂടാതെ ഞാൻ ഔട്ട്പുട്ടിൽ ഒരു ഇൻവെർട്ടറും ഇട്ടു അതിനാൽ പ്രവർത്തനപരമായി എന്റെ മൾട്ടിപ്ലക്സർ അതേപടി തുടരുന്നു കാരണം രണ്ട് ഇൻവെർട്ടർ ഉണ്ടാകും എന്നാൽ 2 ഹൈ ആക്ടിവിറ്റി നോഡുകൾക്ക് പകരം ഞാൻ നേടിയത് ഇപ്പോൾ എനിക്ക് ഒരൊറ്റ ഹൈ ആക്ടിവിറ്റി നോഡ് ഉണ്ട് കാരണം ഔട്ട്പുട്ട് എന്തായിരുന്നാലും അത് അതേപടി തുടരുന്നു ഒരു മാറ്റവുമില്ല അതിനാൽ നിങ്ങളുടെ സർക്യൂട്ട് നെറ്റ്ലിസ്റ്റിൽ ചില മാറ്റങ്ങൾ വരുത്താമെന്നും സിഗ്നൽ ആക്ടിവിറ്റീസ് കുറയ്ക്കുന്നതിന് നിങ്ങൾക്ക് പരിഷ്ക്കരിക്കാവുന്ന ചില ഫങ്ഷണൽ ബ്ലോക്കുകളും കാണിക്കുന്ന ചില ലളിതമായ ഉദാഹരണങ്ങളാണിവ നമുക്ക് ചില ടെക്നിക്കുകൾ നോക്കാം പിൻ സ്വാപ്പിംഗ് pin swappingഎന്ന് വിളിക്കുന്ന ഒരു ടെക്നിക്കുണ്ട് ഇത് രസകരമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾ കാണുന്നു ഞാൻ പറയുന്നത് ഇതുപോലെ ഞങ്ങൾ ഇത് ഇതുവരെ പരിഗണിച്ചിട്ടില്ല ഒരു മൾട്ടി ഇൻപുട്ട് ഗേറ്റ് എടുക്കുക എനിക്ക് 4 ഇൻപുട്ട് NAND ഗേറ്റ് ഉണ്ടെന്ന് കരുതുക സാധാരണയായി നമുക്ക് ഒരു മൾട്ടി ഇൻപുട്ട് ഗേറ്റ് ഉള്ളപ്പോൾ ഞങ്ങൾ എബിസിഡി ഇതുപോലെ ബന്ധിപ്പിക്കുന്നു നമുക്ക് മറ്റൊരു സാഹചര്യം അതേ ഗേറ്റ് ഉണ്ടെന്ന് കരുതുക എന്നാൽ എഡിസിബി പോലെയുള്ള ഗേറ്റുകൾ ഞങ്ങൾ ബന്ധിപ്പിക്കുന്നു ഇപ്പോൾ NAND ഫംഗ്ഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയതിനാൽ ഇവ രണ്ടും തുല്യമാണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും ഇവ രണ്ടും തീർച്ചയായും പ്രവർത്തനപരമായി തുല്യമാണ് എന്നാൽ ഇവയിൽ ഒന്നിൽ സിഗ്നൽ ആക്ടിവിറ്റിയുണ്ടെങ്കിൽ മറ്റൊന്നിൽ തിരിച്ചും സിഗ്നൽ ആക്ടിവിറ്റി ഉണ്ടാകും എന്നതിനാൽ പ്രവർത്തനപരമായി അവ തുല്യമാണെന്നും പവർ ഡിസ്പേഷൻ അനുസരിച്ച് അവ തുല്യമാണെന്നും ചിന്തിക്കാൻ നിങ്ങളെ പ്രലോഭിപ്പിച്ചേക്കാം എന്നാൽ വാസ്തവത്തിൽ CMOS ൽ ഇത് എല്ലായ്പ്പോഴും സംഭവിക്കുന്നില്ല ഇത് രസകരമാണ് അതിനാൽ ഇവിടെ നമ്മൾ പറയുന്നത് പവർ ഡിസ്പേഷനുമായി ബന്ധപ്പെട്ട് ഗേറ്റ് ഇൻപുട്ടിന്റെ സ്വിച്ചിംഗ് പ്രവർത്തനത്തിന്റെ സ്വാധീനം ഇൻപുട്ടിന്റെ ആപേക്ഷിക സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് അതിനാൽ ഇപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ പാരാമീറ്റർ ഉണ്ട് നമുക്ക് ഹൈആക്ടിവിറ്റി നോഡുകൾ ഇൻപുട്ടുകളിലേക്ക് നൽകാം അതിന്റെ സ്വാധീനം പവർ ഡിസ്പേഷനിൽ ഏറ്റവും കുറവാണ് അതിനാൽ ഞങ്ങൾ ഇവിടെ ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഇത് വിശദീകരിക്കുന്നു ഞങ്ങൾ 4 ഇൻപുട്ട് NAND ഫംഗ്ഷൻ എടുക്കുന്നു അതിനാൽ ഞങ്ങൾ കണക്റ്റുചെയ്ത ഇൻപുട്ടുകൾ ഇനിപ്പറയുന്നതാണ് d c b a കൂടാതെ ഈ സ്ലൈഡ് ചുവപ്പ് കാണിക്കുന്നത് മാക്സിമം ആക്ടിവിറ്റി എന്നാണ് ഈ ലൈറ്റർ ഷേഡ് എന്നാൽ ലോ ആക്ടിവിറ്റി എന്നാണ് അർത്ഥമാക്കുന്നത് അതായത് d യുടെ ആൽഫ വാല്യൂ ഏറ്റവും ഉയർന്നതാണ് a യുടെ ആൽഫ വാല്യൂ ഏറ്റവും താഴ്ന്നതാണ് ഇനി ഇവിടെയുള്ള നിരീക്ഷണം ഇങ്ങനെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ലോഡ് കപ്പാസിറ്റൻസ് മാത്രമാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചത് എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഇന്റർമീഡിയറ്റ് നോഡുകളിൽ ഓരോന്നിനും ഒരു കപ്പാസിറ്റൻസ് ഉണ്ടായിരിക്കും അതിനാൽ ഈ നോഡ് ഡി വളരെ വേഗത്തിൽ മാറുകയാണെങ്കിൽ ഇത് ചുവപ്പാണ് ഇവിടെയുള്ള ചില ലീക്കേജ് കറന്റ് കാരണം അല്ലെങ്കിൽ ഇത് ഓണായിരിക്കുമ്പോഴെല്ലാം ഈ കപ്പാസിറ്റൻസ് ചാർജിംഗ് ഡിസ്ചാർജിംഗ് വളരെ ഉയർന്നതായിരിക്കും കാരണം കുറച്ചു കാലത്തേക്ക് ഇവിടെ വഴി ഒരു ചാലക പാത ഉണ്ടാകും അതുപോലെ സിയും ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുന്നു അതിനാൽ d c എന്നിവ രണ്ടും കണ്ടക്ട് ചെയ്യുന്ന സമയങ്ങൾ ഉണ്ടാകും ഈ കപ്പാസിറ്റൻസും ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും എന്നാൽ ഞങ്ങൾ ഇത് മറിച്ചാണ് നൽകിയതെങ്കിൽ നിങ്ങൾ മുകളിൽ നൽകിയ ഏറ്റവും കുറഞ്ഞ സജീവമായ ഇൻപുട്ട് അതിനാൽ ഈ ട്രാൻസിസ്റ്റർ മിക്കവാറും നോൺ കണ്ടക്റ്റിംഗ് ആയിരിക്കും അതിനാൽ ഏറ്റവും താഴ്ന്ന ട്രാൻസിസ്റ്റർ വളരെ ശക്തമായി സ്വിച്ചിംഗ്ചെയ്യുകയാണെങ്കിൽപ്പോലും നിലവിലെ സ്വിച്ചിംഗും ചാർജിംഗ് ഡിസ്ചാർജിംഗ് ആഘാതം ഏറ്റവും കുറവായിരിക്കും കാരണം ഇത് ഈ ട്രാക്കിന് താഴെയാണ് ഈ സ്റ്റാക്ക് താഴെയാണ് അതിനാൽ ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഡിസൈൻ ഫിലോസഫിയാണ് ഇൻപുട്ടിന്റെ സിഗ്നൽ ആക്റ്റിവിറ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഇൻപുട്ടിലേക്ക് ഉയർന്ന ആക്റ്റിവിറ്റി നോഡ് തള്ളാൻ കഴിയും ഇവിടെ a b c d എന്നത് d c b a എന്നതിനേക്കാൾ മികച്ച ഇൻപുട്ട് അസൈൻമെന്റ് ആയിരിക്കും അതിനാൽ ഇതോടെ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു ഇപ്പോൾ അടുത്ത പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് സർക്യൂട്ടിലെ പവർ കൺസംപ്ഷൻ നിയന്ത്രിക്കാനോ കുറയ്ക്കാനോ കഴിയുന്ന ഗേറ്റുകളുടെ തലത്തിലുള്ള കൂടുതൽ സാങ്കേതികതകൾ ഞങ്ങൾ നോക്കും